എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനുള്ള കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ 5 ാം ആഴ്ച മൊഡ്യൂൾ 5 ലാണ് ഇത് പ്രഭാഷണ നമ്പർ 29 ആണ് അവസാനത്തേത് യഥാർത്ഥത്തിൽ ഈ ആഴ്ചയിലെ പ്രഭാഷണം ഈ ആഴ്ചയിലെ അവസാനത്തെ രണ്ട് പ്രഭാഷണങ്ങൾ ഉണ്ട് കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ ഞാൻ തീരുമാനിച്ചു നെറ്റിക്വറ്റിലും ഇമെയിൽ മര്യാദകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് ഞാൻ അടുത്തതിൽ ചെയ്യും പക്ഷേ ഞാൻ ഇതിൽ ഇമെയിൽ മര്യാദകളും അവതരിപ്പിക്കാൻ തുടങ്ങും ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ തിരിച്ചെടുക്കാം ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് പ്രത്യേകിച്ച് മോശം ഇമെയിലുകൾ എങ്ങനെ അയയ്ക്കരുത് എന്നതിൽ മുൻ പ്രഭാഷണം പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനാൽ മോശം ഇമെയിലുകൾ അയയ്ക്കാതിരിക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു മുതിർന്ന അധ്യാപകന് അയയ്ക്കുന്നതുപോലെ ഔപചാരികമായ അഭിവാദ്യം ഉപയോഗിക്കാൻ പഠിക്കേണ്ടതുപോലെ അതിനെ ബഹുമാനിക്കണം സർ പ്രിയ സർ ആദരണീയയായ മാഡം പ്രിയ മാഡം തുടങ്ങിയവ ഹലോ ഹായ് പറയുക കാരണം ഉയർന്ന തലത്തിലുള്ള വ്യക്തിക്ക് അഭിവാദ്യം എന്ന രൂപത്തിൽ തന്നെ കാണിക്കുന്ന ഒരുതരം ബഹുമാനം ആവശ്യമാണ് വലിയ അക്ഷരങ്ങളുടെ അമിതമായ ഉപയോഗം ഒഴിവാക്കുക പ്രത്യേകിച്ചും അത് ആവശ്യമില്ലാത്തപ്പോൾ അവ ഉപയോഗിക്കരുത് പരഭാഷയും സംസാരഭാഷയും ഒഴിവാക്കുക ഇംഗ്ലീഷ് പോലെ ഏതെങ്കിലും രണ്ട് ഭാഷകൾ കൂട്ടിക്കലർത്തുന്നത് ഒഴിവാക്കുക ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ തെലുങ്കിലും ഇംഗ്ലീഷിൽ പഞ്ചാബിയും അത് എന്തായാലും നിങ്ങളുടെ എഴുത്ത് ശൈലിയിൽ ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കുന്നത് ഒഴിവാക്കുക കാരണം ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കും നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് ഭാഷകളും വായനക്കാരന് അറിയാമെന്നത് വായനക്കാരനും നിങ്ങളും നിസ്സാരമായി കാണുന്നു ഔപചാരിക ആശയവിനിമയത്തിൽ ടെക്സ്റ്റ് ഭാഷ ഒഴിവാക്കുക നിങ്ങൾ എസ്എംഎസ് അയയ്ക്കുന്ന രീതി നല്ലതാണ് അത് ഒരു ഹ്രസ്വ സന്ദേശ സേവനം അതിനാൽ നിങ്ങൾക്ക് ഇത് ഹ്രസ്വമാക്കാം പക്ഷേ ഒരു ഇമെയിലിൽ നിങ്ങൾക്ക് പൂർണ്ണ വാക്യ രൂപത്തിൽ എഴുതാൻ കഴിയും അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതിന് നിങ്ങൾ വാചക ഭാഷയോ ചാറ്റ് ഭാഷയോ ഒഴിവാക്കണം പൂർണ്ണ വാക്യ രൂപത്തിൽ ഇമെയിലുകൾ ശരിയായി അയയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം കൂടാതെ നിങ്ങൾ വിരാമചിഹ്നങ്ങൾ അക്ഷരവിന്യാസം വ്യാകരണം എന്നിവയിൽ ആദരവ് കാണിക്കണം ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളോട് അത്തരം നിയമങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ എത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്ത മോശം ഇമെയിലുകൾ തിരിച്ചറിയുന്നതിലൂടെ അവസാനമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് മാത്രം ഞാൻ ആ മെയിൽ അയച്ചു ഞങ്ങൾ ചർച്ച ചെയ്ത അവസാന ഇമെയിലിൽ ആ വ്യക്തി ഏതാണ്ട് മുഴുവൻ ഐ കെ കാമ്പസിലേക്കും അയച്ചു ഡയറക്ടർ മുതൽ തൊഴിലാളി വരെയും തുടർന്ന് വിദ്യാർത്ഥി തിരയുമ്പോഴുമുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തിന് ഇന്റേൺഷിപ്പ് നൽകാൻ കഴിയുന്ന ഒരു പ്രത്യേക പ്രൊഫസർ അതിനാൽ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കുക ഏറ്റവും ആശങ്കയുള്ള വ്യക്തിക്ക് മാത്രം അയയ്ക്കുക ഇപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് നമുക്ക് നെറ്റിക്വറ്റിലേക്ക് നോക്കാം പിന്നെ എന്തുകൊണ്ടാണ് നെറ്റിക്വറ്റ് പിന്നെ മാനദണ്ഡങ്ങളായി നിങ്ങൾ പാലിക്കേണ്ട ഇമെയിൽ മര്യാദകൾ എന്തൊക്കെയാണ് ഈ രസകരമായ ഉദ്ധരണി നോക്കൂ യഥാർത്ഥ അപകടം കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നല്ല പുരുഷന്മാരെപ്പോലെ ചിന്തിക്കുക പക്ഷേ പുരുഷന്മാർ കമ്പ്യൂട്ടറുകളെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങും പുരുഷന്മാർ അത് ചെയ്യുമെന്നതാണ് അപകടമെന്ന് നാം ഓർമ്മിക്കേണ്ട പ്രധാന ആശയം കമ്പ്യൂട്ടറുകളെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങുക വാസ്തവത്തിൽ ഇതിനകം അവർ അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല ചെയ്യുന്നത് കമ്പ്യൂട്ടറുകൾ പക്ഷേ അവയും കമ്പ്യൂട്ടറുകളെപ്പോലെ പെരുമാറുന്നു യന്ത്രങ്ങളെപ്പോലെ പെരുമാറുന്നു അതിനാൽ നിങ്ങൾ നെറ്റ് ഉപയോഗിച്ച് ആശയവിനിമയത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിനാലാണ് ഞങ്ങൾക്ക് നെറ്റിക്വെറ്റ് ആവശ്യമായി വരുന്നത് ഇപ്പോൾ എന്താണ് നെറ്റിക്വെറ്റ് രണ്ട് വാക്കുകൾ സംയോജിപ്പിച്ച് ഒരു പുതിയ വാക്ക് രൂപപ്പെടുന്ന ഒരു പോർട്ട്മാന്റോ പദമാണിത് ആ രണ്ട് വാക്കുകൾ എന്തൊക്കെയാണ് ഒന്ന് ഇന്റർനെറ്റ് മറ്റൊന്ന് നെറ്റ്വർക്ക് അതിനാൽ ഇന്റർനെറ്റ് നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് നെറ്റും മര്യാദയും ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നീടുള്ള ഭാഗം പ്രത്യയം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നെറ്റിക്വെറ്റ് എന്ന വാക്ക് ഉണ്ട് ഇപ്പോൾ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് എന്താണ് മര്യാദ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ മര്യാദ എന്നത് ഒരു കുടക്കീഴിലുള്ള പദമാണ് ഇത് ഒരു വിപുലമായ പദമാണ് ഇത് നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്കുള്ള ഒരു ഭരണ പദമാണ് സാമൂഹികമായും സാംസ്കാരികമായും സ്വീകാര്യമായ പെരുമാറ്റം ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഇടപെടുമ്പോൾ പിന്തുടരേണ്ട നല്ല പെരുമാറ്റത്തെക്കുറിച്ചാണ് ഒരുതരം സാമൂഹിക പെരുമാറ്റത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ മര്യാദ നെറ്റുമായി സംയോജിപ്പിക്കുകയാണെങ്കിൽ നെറ്റിക്വെറ്റ് എന്താണ് സൂചിപ്പിക്കുന്നത് ഇത് ശരിയായ ശരിയായ മര്യാദയുള്ള സ്വീകാര്യമായ സാമൂഹിക ഔദ്യോഗിക പ്രൊഫഷണൽ എന്നിവയെ സൂചിപ്പിക്കുന്നു ഇന്റർനെറ്റ് അല്ലെങ്കിൽ സൈബർ സ്പേസ് ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മാന്യത ആശയവിനിമയ ആവശ്യങ്ങൾക്കായി അതിനാൽ നെറ്റിക്വെറ്റ് നിങ്ങളുടെ കോഡ് അല്ലെങ്കിൽ ഇൻറർനെറ്റിലെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ഇന്റർനെറ്റിൽ ഒരാളുമായി ആശയവിനിമയം നടത്തുമ്പോൾ മാന്യതയുടെ കാര്യത്തിൽ നിങ്ങൾ ഏതുതരം നിയമങ്ങൾ പാലിക്കണം അതിനാൽ അത് നെറ്റിക്വെറ്റിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് അറിയേണ്ടത് എന്തിനാണ് നെറ്റിവിറ്റ് ഇത് ഞാൻ അറിയുന്നില്ലേ ഇപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് വികസിച്ച രീതി നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി ചുരുക്കിയിരിക്കുന്നു അതിനാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന കണക്റ്റിവിറ്റി കാരണം ലോകം മുഴുവൻ ചെറുതായിത്തീർന്നിരിക്കുന്നു അതിനാൽ തൽക്ഷണം ഇത് ഒരു ഗ്രാമം പോലെയാക്കി എന്നാൽ ആശയവിനിമയം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആശയവിനിമയം മാറിയെന്ന് നിങ്ങൾ മനസ്സിലാക്കും കൂടുതൽ സങ്കീർണ്ണമായ ഒരു പ്രക്രിയയാണ് കണക്റ്റിവിറ്റി കാരണം ലോകത്തിന്റെ വലിപ്പം കുറഞ്ഞുവെങ്കിലും പിന്നീട് മനുഷ്യ ആശയവിനിമയത്തിന്റെ സങ്കീർണ്ണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഉൾപ്പെടുന്ന ആശയവിനിമയ സങ്കീർണതകൾ കുറയുന്നില്ല ഒരു സാമൂഹിക ഗ്രൂപ്പിലെ വ്യക്തികളുമായുള്ള ആശയവിനിമയം ഇപ്പോൾ വിവിധ ചാനലുകളിൽ വിവരങ്ങളുടെ ഒഴുക്കും കൈമാറ്റവും ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ നമുക്ക് നിരവധി ചാനലുകൾ ഉണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുക ആളുകളുമായി ചർച്ച ചെയ്യുക മുകളിൽ ഫേസ്ബുക്ക് തുടർന്ന് മെയിലിംഗ് ലിസ്റ്റുകൾ നമുക്ക് ഗ്രൂപ്പിൽ ചേരാം തുടർന്ന് മെയിലുകളും ബ്ലോഗുകളും ലഭിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആവിഷ്കാര അഭിപ്രായം സ്വതന്ത്രമായി എഴുതാം ഫോറങ്ങളും ചാറ്റുകളും എന്നാൽ ആശയവിനിമയം ഈ രൂപങ്ങളിൽ ഫലപ്രദമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു രീതി അല്ലെങ്കിൽ ഇല്ല തീർച്ചയായും ഉത്തരം അത് ആഗ്രഹിക്കുന്നത് പോലെ ഫലപ്രദമല്ല എന്നതാണ് ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നെറ്റിക്വെറ്റ് ഉണ്ടായിരിക്കേണ്ടത് കൂടാതെ ഇന്റർനെറ്റ് യഥാർത്ഥത്തിൽ മനുഷ്യമനസ്സിന്റെ വിശാലത വർദ്ധിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ മനുഷ്യ മനസ്സിനെ വിശാലമാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു പക്ഷേ സ്വാഭാവികമായും മനുഷ്യഹൃദയത്തിന്റെ മൂല്യങ്ങൾ ചുരുക്കിയിരിക്കുന്നു അതിനാൽ ആളുകൾ വൈകാരിക വൈകല്യമുള്ളവരായി മാറിയിരിക്കുന്നു അതിനാൽ വൈകാരികമായി അവർ വികലാംഗരായി അവർ വികലാംഗരായി അവർക്ക് കഴിയില്ല അവരുടെ വൈകാരിക കഴിവുകൾ ഉപയോഗിച്ച് ശക്തമായി പ്രവർത്തിക്കാൻ അതുകൊണ്ടാണ് നമുക്ക് സോഫ്റ്റ് കഴിവുകൾ ഉള്ളത് എന്നാൽ മറുവശത്ത് ഇന്റർനെറ്റിന് നന്ദി പറഞ്ഞ് ആശയവിനിമയം വിപുലീകരിച്ചു പക്ഷേ അതിനുശേഷം നെറ്റ്വർക്ക് ഉപയോഗിച്ച് ആളുകൾക്ക് അവരുടെ വൈകാരിക ബുദ്ധി ഉചിതമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്താണ് സംഭവിക്കുന്നത് വിദ്വേഷ മെയിലുകൾ സ്വകാര്യതാ നയങ്ങൾ ലംഘിക്കുന്ന സൈറ്റുകൾ ഇമെയിൽ ഐഡന്റിറ്റികളുടെ ഹാക്കിംഗ് എന്നിവ വർദ്ധിക്കുന്നു ഐഡന്റിറ്റി മോഷണം ഐഡന്റിറ്റി ഹാക്കിംഗ് ഇമെയിൽ എന്നിവ ഉൾപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇന്ന് നാം കേൾക്കുന്നു ഐഡന്റിറ്റി ഫേസ്ബുക്ക് ഐഡന്റിറ്റി ഫേസ്ബുക്ക് പാസ്വേഡ് എന്നിവ മോഷ്ടിക്കപ്പെടുകയും ആരെങ്കിലും നിങ്ങളുടെ വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങൾ ഇടുകയും ചെയ്യുന്നു അതിനാൽ ഇവയെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്റെ ഹൃദയം ചുരുങ്ങുന്നതിനാലാണ് അതേസമയം മനസ്സ് വളരുകയാണ് സെൻഡ് ബട്ടണിൻറെ ഒരു സാധാരണ ക്ലിക്കിലൂടെ ആളുകൾ തെറ്റിദ്ധരിക്കുകയും വർഷങ്ങളായി കെട്ടിപ്പടുത്ത വിലയേറിയ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു അതിനാൽ അവർ സന്ദേശം അയയ്ക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്നില്ല അവർ അയയ്ക്കുക ബട്ടൺ വളരെ സാധാരണമായി ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അവർക്ക് വിലയേറിയ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ അവർക്ക് പതിറ്റാണ്ടുകളായി നിർമ്മിച്ച വിലയേറിയ നന്മ നഷ്ടപ്പെടുന്നു ഇപ്പോൾ എന്തിനാണ് വീണ്ടും നെറ്റിക്വറ്റ് ഇമെയിലുകൾ അയയ്ക്കുന്നത് സൈബർ ആശയവിനിമയത്തിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ രൂപമായി മാറിയിരിക്കുന്നു മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഓഫീസുകളിൽ കത്തുകൾ തയ്യാറാക്കിയ രീതി നോക്കുകയാണെങ്കിൽ കമ്പനികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ആളുകൾക്ക് പരിശീലനം നൽകി ആളുകൾ ഈ സ്റ്റെൻഹൌസും ക്ലാർക്കുകൾ പിന്നെ ഓഫീസ് അസിസ്റ്റന്റുമാർ പേഴ്സണൽ അസിസ്റ്റന്റുമാർ അവരെല്ലാം പരിശീലനം നേടിയവരാണ് അവരെല്ലാവരും ഒരു ഉപദേഷ്ടാവിനാൽ പരിശീലിപ്പിക്കപ്പെടുകയോ പ്രൊഫഷണലായി എഴുതാൻ പരിശീലിപ്പിക്കപ്പെടുകയോ ചെയ്തു ശരിയായ ഫോർമാറ്റിൽ അക്ഷരങ്ങൾ എന്നാൽ നിങ്ങൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരു ഇമെയിലും അയയ്ക്കുന്നതിനുള്ള പരിശീലനവും ഇല്ല ഫലപ്രദമായ കത്തുകൾ അയയ്ക്കുന്നതിന്റെ സൂക്ഷ്മതകൾ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു ഇമെയിലുകൾ അയയ്ക്കുന്നതിന് ആർക്കും ഔപചാരിക പരിശീലനം ലഭിക്കുന്നില്ല എന്ന വസ്തുത നെറ്റിക്വറ്റിനായി വിളിക്കുന്നു ആസൂത്രണമോ തയ്യാറെടുപ്പോ ഇല്ലാതെ എഴുതുകയും അവതരണക്ഷമതയെക്കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്ന് അയയ്ക്കുകയും ചെയ്യുന്നവയാണ് ഇമെയിലുകൾ ഇടപാട് പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശയവിനിമയത്തിന്റെ മാനുഷിക വശം പൂർണ്ണമായും അവഗണിച്ചാൽ അതിന്റെ ഫലം എന്താണ് തെറ്റായ ആശയവിനിമയമാണ് ഫലം സൈബർ ഇടത്തിലെ ആശയവിനിമയത്തിന്റെ ലളിതമായ മാനദണ്ഡങ്ങൾ ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്താൽ ഇത് ഒഴിവാക്കാൻ കഴിയും അതിനാൽ അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് നെറ്റിക്വെറ്റ് ഉള്ളത് ഇനി നമുക്ക് ചില അടിസ്ഥാന നെറ്റിക്വറ്റ് മാനദണ്ഡങ്ങൾ നോക്കാം ഈ മാനദണ്ഡങ്ങൾ പൊതുവെ നെറ്റിലെ ഏത് തരത്തിലുള്ള ഉപയോഗത്തെയും ആകർഷിക്കുന്നു സ്വീകർത്താവ് ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ മറക്കരുത് എന്നതാണ് ആദ്യത്തേതും അടിസ്ഥാനപരവുമായ നിയമം മറുവശത്ത് നിങ്ങളുടെ ഇമെയിൽ ലഭിക്കുകയോ നിങ്ങളുടെ സന്ദേശം ലഭിക്കുകയോ ചെയ്യുന്ന വ്യക്തിയും നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ മറക്കരുത് ശൂന്യമായ സ്ക്രീനിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു യന്ത്രവുമായി ഇടപഴകുന്നുവെന്ന തോന്നൽ നിങ്ങൾക്ക് ലഭിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ അതിനപ്പുറത്തേക്ക് പോയി മറുവശത്ത് ഇരിക്കുന്ന മറ്റൊരാൾക്ക് നിങ്ങളിൽ നിന്ന് ഈ മെയിൽ അല്ലെങ്കിൽ സന്ദേശം ലഭിക്കാൻ പോകുന്നുവെന്ന് സങ്കൽപ്പിക്കുക അതിനാൽ നിങ്ങൾ സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അവനുമായോ അവളുമായോ മുഖാമുഖം സംവദിക്കുന്നതുപോലെ സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യണം സത്യസന്ധമായ ചോദ്യം സ്വയം ചോദിക്കുക നിങ്ങൾ എഴുതുന്നതെന്തും നിങ്ങൾ എഴുതുന്ന ഒരു വിദ്വേഷ മെയിൽ ആണെന്ന് പറയാം നിങ്ങൾക്ക് ദേഷ്യമുണ്ട് ആരുടെയെങ്കിലും കൂടെ നിങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം പറയുമോ 100 ശതമാനം നിങ്ങൾ ഒരേ ഉള്ളടക്കം പറയില്ല നിങ്ങൾ അത് ടോൺ ചെയ്യും നിങ്ങൾ അത് മറ്റൊരു രീതിയിൽ ഇടും നിങ്ങൾ ആ വ്യക്തിയെ കാണുമ്പോൾ പോലും ഉദാഹരണത്തിന് നിങ്ങൾ ആ വ്യക്തിയെ വിളിച്ചുപറയുകയും തുടർന്ന് മറ്റൊരു വ്യക്തി അവൾ ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് പറയാം അവൾ നിരപരാധിയായതിനാൽ കരയാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾ തന്നെ അയോഗ്യമായി കുറ്റപ്പെടുത്തുന്നതായി അവൾക്ക് തോന്നുന്നു മറ്റേയാൾ കരയുന്നത് കാണുന്ന നിമിഷം നിങ്ങൾ അമിതമായി പ്രതികരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും തുടർന്ന് നിങ്ങൾ നിർത്തുകയും ചെയ്യുന്നു അതേസമയം ഇമെയിലിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഉടൻ വിലയിരുത്താൻ കഴിയില്ല മെയിൽ അയക്കുകയും ആ വ്യക്തി അത് പൂർണ്ണമായി വായിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ വ്യക്തി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുകയുള്ളൂ മറ്റൊരു മെയിലിലൂടെയോ മറ്റൊരു ഫോൺ കോളിലൂടെയോ പ്രതികരിക്കാൻ പോകുന്നു അല്ലാത്തപക്ഷം മറ്റേയാൾക്ക് എന്താണ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ അത് നിങ്ങൾ അനുകമ്പ കാണിക്കേണ്ടത് പ്രധാനമാണ് മെയിൽ അയയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റൊരാളുടെ ഷൂസിൽ അനുഭവപ്പെടണം നിങ്ങൾ മനുഷ്യ ഘടകം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ അയയ്ക്കാത്ത സന്ദേശങ്ങൾ അയയ്ക്കില്ല സ്വീകർത്താവിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു അതിനാൽ എല്ലായ്പ്പോഴും മറ്റേയാളെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക തുടർന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം മനുഷ്യ സ്പർശം നൽകുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ഒരു മനുഷ്യനാണെന്നും മറ്റേ വ്യക്തിയും സ്വീകരിക്കുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഈ മനുഷ്യ സ്പർശനത്തിന് വ്യക്തിപരമായ ആകർഷണം നൽകാൻ ശ്രമിക്കുക ഇത് ഔപചാരികമായ ഒരു കത്താണെങ്കിൽപ്പോലും നിങ്ങളിൽ നിന്ന് ഒരു ഊഷ്മളത പുറത്തേക്ക് വരുന്നതായി അവർക്ക് തോന്നണം ഇമെയിൽ ചെയ്യുക നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും വളരെ അനുയോജ്യമായ വാക്കുകളുടെ ഉപയോഗത്തിലൂടെ ഇപ്പോൾ ഔപചാരികമായ കത്തുകളിൽ പോലും ചില ബിസിനസ് ഓഫീസുകൾ പുഞ്ചിരികളും ഇമോജികളും പോലും സ്വീകരിക്കുന്നു നിങ്ങൾ ശരിക്കും ഗൌരവമുള്ളവരല്ലെന്ന് സൂചിപ്പിക്കാൻ നിങ്ങൾ തമാശ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ലഘുവായ ഹൃദയമുള്ളവരാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾ കീകൾ ടൈപ്പ് ചെയ്താൽ കോളോൺ ചെയ്ത് ഒരു ഡാഷ് ഇടുക തുടർന്ന് ഒരു ക്ലോസിംഗ് ഇടുക ബ്രാക്കറ്റ് അമർത്തുക തുടർന്ന് എൻ്റർ അമർത്തുക അങ്ങനെ അത് ഒരു സ്മൈലി സൃഷ്ടിക്കും പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇമെയിൽ അയയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പോലും ധാരാളം പുഞ്ചിരികൾ ചേർക്കാൻ കഴിയും ഒരുതരം പുഞ്ചിരി അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു വ്യക്തിപരമായ സ്പർശം നൽകുന്നുവെന്ന തോന്നൽ നൽകുന്നു നിങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ദേഷ്യമില്ലെന്ന് മറ്റേ വ്യക്തിയോട് പറയുമ്പോൾ ആശയവിനിമയത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണ് പക്ഷേ മറ്റൊരാൾ ആശയവിനിമയം നടത്തിയ രീതിയിൽ നിങ്ങൾ ചില പരിമിതികൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് ആ വ്യക്തിയെ നിരസിക്കുകയല്ല മറിച്ച് നിങ്ങളോട് എന്തെങ്കിലും ചെയ്ത രീതിയെ നിരസിക്കുകയാണ് നിങ്ങളുടെ സന്ദേശം ശരിയായ സ്വരത്തിലും മനോഭാവത്തിലും ആശയവിനിമയം നടത്തുന്നതിൽ നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവെന്ന് അത്തരം കൂട്ടിച്ചേർക്കലുകൾ സ്വീകർത്താവിനെ അറിയിക്കുന്നു അതിനാൽ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് എല്ലായ്പ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട കർദ്ദിനാൾ നെറ്റിക്വെറ്റ് തത്വമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കരുത് എന്ന് ഞാൻ പറയും അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോയി ആ വ്യക്തിയെ കാണുക അല്ലെങ്കിൽ കുറഞ്ഞത് ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കുക ഇമെയിലിന് ബോംബുകളായി പ്രവർത്തിക്കാൻ കഴിയും അത് ബന്ധത്തെ പൂർണ്ണമായും നശിപ്പിക്കും അതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതിനാൽ മനുഷ്യ ഘടകമാണ് ഒന്നാം നമ്പർ നിയമം എന്ന് മറക്കരുത് അടുത്തത് എഴുതപ്പെട്ട വാക്കുകൾ ശാശ്വതമായി സൂക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ സംഭരിക്കുന്നുണ്ടെന്ന് ആളുകൾ പോലും പറയുന്നു അതായത് വാക്കുകൾ ശാശ്വതമായി സംഭരിക്കപ്പെടുന്നു അവ എന്നെന്നേക്കുമായി സംഭരിക്കപ്പെടുന്നു അതിൻ്റെ അർത്ഥമെന്താണ് ഈ വാക്കുകൾ സ്ഥിരമായി സൂക്ഷിക്കാൻ കഴിയുന്നതിനാൽ ആശയവിനിമയത്തിന് ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരാൾ വളരെ ശ്രദ്ധിക്കണം തെറ്റായ വാക്കുകൾ തിരഞ്ഞെടുക്കുക മര്യാദയില്ലാത്തവ തിരഞ്ഞെടുക്കുക നിങ്ങൾ വളരെ പരുഷനാണെന്ന തോന്നൽ സൃഷ്ടിക്കുക ആക്രമണാത്മകവും സംവേദനക്ഷമതയില്ലാത്തതും മറുവശത്തുള്ള ബന്ധത്തെ പൂർണ്ണമായും നശിപ്പിക്കും മിക്കപ്പോഴും ആകസ്മികമായി അയയ്ക്കുന്ന ഇമെയിലുകൾ വളരെ അപകീർത്തികരമായ രീതിയിൽ തിരിച്ചെത്തിയേക്കാം അതിനാൽ അയച്ച വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മറ്റൊരാളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല മറിച്ച് തെറ്റായ ഉപയോഗമായിരുന്നു വാക്കുകൾ അയയ്ക്കുന്നയാൾ എല്ലായ്പ്പോഴും ഖേദിക്കുന്നു എന്ന അസുഖകരമായ വികാരത്തോടെയാണ് മറ്റേയാൾ അയയ്ക്കുന്നത് ചിന്തയില്ലാത്ത ഒരു മെയിൽ അയച്ചതിന് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവൻ നിങ്ങൾ അത് അയയ്ക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അത് അയച്ചതെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഖേദിക്കുന്നു അതിനാൽ അയയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ അയയ്ക്കുന്നതെന്തും സ്ഥിരമായി റെക്കോർഡ് ചെയ്യാമെന്ന് ചിന്തിക്കുക ഇക്കാരണത്താൽ നിങ്ങൾ എഴുതിയ വാക്കുകളിൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അത് വരുമ്പോൾ ഇ മെയിൽ വഴിയാണ് അയക്കുന്നത് നെറ്റിൻ്റെ അടുത്ത രസകരമായ വശവും നിങ്ങൾ ഓർക്കേണ്ട നെറ്റിക്വറ്റ് മാനദണ്ഡവും വിരോധാഭാസമെന്നു പറയട്ടെ വിരോധാഭാസമെന്നു പറയട്ടെ ഇത് വിപരീതമാണെന്ന് തോന്നുമെങ്കിലും അത് സത്യമാണ് അയച്ച ഇമെയിൽ റിസീവർ നിയന്ത്രിക്കുന്നു അതിന്റെ അർത്ഥമെന്താണ് സാധാരണയായി നിങ്ങൾ അയച്ചയാൾ നിങ്ങളുടെ ഇമെയിലുകളിൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ മെയിൽ അയച്ചുകഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നത് ഒരു സ്വീകർത്താവാണ് എന്നതാണ് വസ്തുത ഒരിക്കൽ സെൻഡ് ബട്ടൺ അമർത്തിയാൽ നിങ്ങളുടെ ഇമെയിലുകളിൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല നിങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ലെങ്കിൽ അത് അയച്ചുകഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നയാൾക്ക് മെയിലുകളിൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും സ്വീകർത്താവ് എന്തു ചെയ്യും ഭാവിയിലെ ഉപയോഗത്തിനായി മെയിൽ ഇല്ലാതാക്കണോ സംഭരിക്കണോ എന്ന് നിങ്ങൾ മെയിൽ ഉടൻ ഇല്ലാതാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും റിസീവർ തീരുമാനിക്കുന്നു അതിനാൽ മറ്റൊരു സഹപ്രവർത്തകനെക്കുറിച്ച് നിങ്ങൾ ഒരു ഇമെയിലിലൂടെ ഈ വ്യക്തിയോട് മോശമായി എന്തെങ്കിലും പറഞ്ഞേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിലിൽ നിങ്ങളുടെ ബോസിനെക്കുറിച്ച് ചില തമാശകൾ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കിട്ടു ഇമെയിലിൽ മറ്റൊരാളുമായി അടുപ്പമുള്ള കാര്യം നിങ്ങൾ അത് വായിച്ചാലുടൻ ദയവായി അത് ഇല്ലാതാക്കാൻ മറ്റേ വ്യക്തിയോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ അഭ്യർത്ഥിച്ചതിനുശേഷവും അത് ചെയ്യണമോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായും മറ്റൊരാളാണ് അത് ഇല്ലാതാക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ല അതിനാൽ നിങ്ങൾ അത് അയച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അയച്ച ഇമെയിലിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും ഇപ്പോൾ ഏറ്റവും മോശം സാഹചര്യം ഇതാണ് സ്വീകർത്താവിന് ഇത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും അത് നിരവധി പേർക്ക് അയയ്ക്കാനും കഴിയും മറ്റുള്ളവർ അതിന്റെ ഒരു പ്രിന്റൌട്ട് എടുത്ത് പൊതു നോട്ടീസ് ബോർഡുകളിൽ പോസ്റ്റ് ചെയ്യുകയും നിങ്ങളെ നാണം കെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫീസുകളിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എല്ലായ്പ്പോഴും പരിശോധിക്കാൻ കഴിയുമെന്ന് ചില ആളുകൾക്ക് അറിയില്ല എല്ലാവരുടെയും ഇമെയിലുകൾ ഒരു മാസ്റ്റർ പാസ്വേഡ് ഉണ്ട് അത് എപ്പോൾ വേണമെങ്കിലും ആരുടെയും ഇമെയിലിൽ നോക്കാൻ ഉപയോഗിക്കാം അതിനാൽ കോർപ്പറേറ്റ് ഓഫീസ് സാധാരണയായി വ്യക്തിഗത ഇമെയിൽ ഐഡികൾ നൽകുന്നു പക്ഷേ അവർക്ക് മാസ്റ്റർ കൺട്രോൾ ഉണ്ട് അതിനാൽ ഒരു പുരുഷ സഹപ്രവർത്തകൻ ഒരുതരം ഇമെയിൽ നിർദ്ദേശം അയച്ച ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടു അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വനിതാ സഹപ്രവർത്തകയോട് അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പമുള്ള വികാരങ്ങൾ ഇപ്പോൾ സഹപ്രവർത്തകന് പ്രതികരിക്കാൻ കഴിയുന്നതിനുമുമ്പ് അഡ്മിനിസ്ട്രേറ്റർ ഇത് കാണുകയും മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മാനേജർ കത്തിന്റെ പ്രിന്റൌട്ട് എടുത്ത് പോയി നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു തുടർന്ന് അദ്ദേഹം രാജ്യത്തുടനീളമുള്ള എല്ലാ ഓഫീസുകളിലേക്കും പകർപ്പുകൾ വിതരണം ചെയ്തു ഇപ്പോൾ അത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമായിരുന്നു ഒടുവിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് ജോലി ഉപേക്ഷിക്കേണ്ടിവന്നു അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും ലാഭകരവുമായ ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കേണ്ടിവന്നില്ല കാരണം എല്ലായിടത്തും ആളുകൾ അവനെ കളിയാക്കാൻ തുടങ്ങി അവന്റെ പിന്നിൽ അവനെ നോക്കി ചിരിച്ചു തമാശകൾ പറയുകയും അവന് അപമാനത്തെ നേരിടാൻ കഴിയാതെ വരികയും ചെയ്തു അതിനാൽ നിങ്ങൾക്ക് ലജ്ജ തോന്നിയേക്കാം നിങ്ങൾ അയച്ച ഒരു ഇമെയിൽ കാരണം പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് നാണക്കേട് തോന്നിയേക്കാം ആളുകൾക്ക് ഉടനടി പ്രതികരിക്കാൻ മാത്രമല്ല അവർക്ക് അത് സംഭരിക്കാനും മറ്റ് കാരണങ്ങളുണ്ട് 10 വർഷത്തിനുശേഷം അവർക്ക് ഇത് വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയും 20 വർഷത്തിനുശേഷം അവർക്ക് നിങ്ങൾക്ക് മെയിൽ തിരികെ അയയ്ക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാറ്റിയിട്ടുണ്ടാകാം തുടർന്ന് നിങ്ങൾ എതിർക്കുന്നുവെന്ന് അവർക്ക് കാണിക്കാൻ കഴിയും നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയും നിങ്ങൾ ആ മാനദണ്ഡം ലംഘിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം അഭിപ്രായം വീണ്ടും അവർ നിങ്ങളെ ആ രീതിയിൽ നാണം കെടുത്തും അതിനാൽ അതും നിങ്ങൾ ഓർക്കേണ്ട മറ്റ് പ്രധാന നെറ്റിക്വെറ്റ് മാനദണ്ഡവും ഓർക്കുക നിങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് സാമൂഹികമായി ആശയവിനിമയം നടത്തുമ്പോഴോ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴോ ആണ് ജനറൽ ആരുമായും ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്ന ഏതൊരാളും ധാർമ്മികമായി ശരിയായിരിക്കുക നിങ്ങൾ എന്തിനാണ് ധാർമ്മികമായി ശരിയായിരിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കും അതിനാൽ ഇത് എന്റെ കമ്പ്യൂട്ടർ പോലെയാണ് അതിനാൽ ഞാൻ ആർക്കും അയയ്ക്കുന്നു മൊത്തത്തിൽ പറയുന്നു പ്രണയത്തിൽ എല്ലാം ന്യായമാണ് പല ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെയും മാനസികാവസ്ഥയ്ക്ക് അനുസൃതമായി യുദ്ധം പരിഷ്ക്കരിക്കാം പ്രണയ യുദ്ധത്തിലും സൈബർ ഇടത്തിലും എല്ലാം ന്യായമാണ് സൈബർ ഇടത്തിൽ എന്തും പോകുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഏത് അസംബന്ധവും നിങ്ങൾ എഴുതുന്നു ലവ് മെയിൽ വിദ്വേഷ മെയിൽ അധിക്ഷേപകരമായ മെയിൽ അധിക്ഷേപകരമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുക അധിക്ഷേപകരമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക അതിനാൽ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുക അതാണ് പല നെറ്റ്വർക്കുകളുടെയും ധാരണ അധാർമികമായ മെറ്റീരിയലുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോക്താക്കൾ വിശ്വസിക്കുന്നു അധാർമികമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങൾ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യില്ല പക്ഷേ അത് ഒരു മൂന്നാം വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ മടിക്കില്ല പ്രത്യേകിച്ചും അത് നിങ്ങൾക്ക് അപരിചിതനാണെങ്കിൽ അധിക്ഷേപകരമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനും നെറ്റിൽ പോസ്റ്റ് ചെയ്യാനും മടിക്കരുത് ഇത് ധാർമ്മികമായി ശരിയല്ലെന്ന് നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ അത് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നു അതിനാൽ നിങ്ങൾ ധാർമ്മികമായി ശരിയായിരിക്കണം നിങ്ങൾ അധാർമ്മികമായ ഒരു അഭിപ്രായവും പോസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിനോടുള്ള നിങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ താഴ്ത്തിക്കെട്ടരുത് വീണ്ടും നിങ്ങൾ ഒരേ വ്യക്തിയെ മുഖാമുഖം കണ്ടുമുട്ടുകയും നിങ്ങൾ കണ്ണുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാൻ കഴിയാത്ത വ്യക്തിയുമായി സംസാരിക്കുക മുഖാമുഖം കണ്ടുമുട്ടുന്നതിനേക്കാൾ മികച്ച ചില കാര്യങ്ങൾ ഫോണിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷേ നിങ്ങൾ പോലും നിങ്ങളുടെ മാന്യത നിലനിർത്തുന്നു പക്ഷേ ഇന്റർനെറ്റിന്റെ കാര്യം വരുമ്പോൾ ഈ വ്യക്തിക്ക് എനിക്ക് എന്തും എഴുതാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു കാരണം ആ വ്യക്തി എനിക്ക് തൊട്ടുമുമ്പിലല്ല ആ വ്യക്തി മെയിലിന്റെ ഇൻബോക്സ് തുറക്കുമ്പോഴെല്ലാം ആ വ്യക്തി അത് കാണുന്നു അതിനാൽ മനോഭാവം തെറ്റാണെന്ന് ഞാൻ ഇപ്പോൾ കാര്യമാക്കുന്നില്ല അത് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ താഴ്ത്തുന്നു തുടർന്ന് ആരെങ്കിലും പൂർണ്ണമായും അനാവശ്യമായ തൻ്റെ മൃദുവായ കഴിവുകളും വ്യക്തിത്വവും വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നയാൾ സാമൂഹിക ധാർമ്മികത ഇന്റർനെറ്റ് ധാർമ്മികത എന്നിവ നിങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കണം ധാർമ്മികമായി നല്ലതോ ചീത്തയോ ആയവർ നല്ലത് തിരഞ്ഞെടുക്കുമ്പോൾ ചീത്ത തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ് അധാർമിക മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം അത് നിങ്ങൾക്ക് കുറച്ച് ഹ്രസ്വകാലം നൽകും എന്നതാണ് ഒരു യഥാർത്ഥ പ്രൊഫഷണൽ പ്രതിച്ഛായ നേടുന്നതിന് ഒരാൾ ഉയർന്ന ധാർമ്മിക മാനദണ്ഡങ്ങൾ നിലനിർത്തണം അത് നിങ്ങളെ എല്ലായ്പ്പോഴും നിലനിർത്തും തുടർന്ന് അത് നിങ്ങൾക്ക് ദീർഘകാല നേട്ടങ്ങൾ ദീർഘകാല ആനുകൂല്യങ്ങൾ നൽകും നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ ജനപ്രിയനാകുന്നു പക്ഷേ പെട്ടെന്ന് ആരോ എന്തെങ്കിലും ഇടുന്നു നിങ്ങൾ 5 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്യുകയും അത് 5 വർഷത്തിനിടെ നിങ്ങൾ നേടിയ മുഴുവൻ പ്രശസ്തിയെയും നശിപ്പിക്കുകയും ചെയ്യുന്നു കഠിനാധ്വാനത്തിലൂടെയും പിന്നീട് നിങ്ങൾ സമ്പാദിച്ച ധാരാളം നന്മയിലൂടെയും അതിനാൽ എഴുതിയതെന്തും നിങ്ങൾക്കെതിരെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമെന്ന് ശ്രദ്ധിക്കുക അതിനാൽ നല്ലത് മാത്രം എഴുതുക നിങ്ങൾ അധാർമികമായി പോസ്റ്റ് ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ഹ്രസ്വകാല നേട്ടങ്ങൾ മാത്രമേ നൽകൂ പക്ഷേ അപ്പോൾ അത് ദീർഘകാലാടിസ്ഥാനത്തിലും പിടിക്കപ്പെടാനുള്ള സാധ്യതയും മൂലം നിങ്ങളെ ബാധിക്കും അധാർമികമായ പ്രയോഗത്തിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ എവിടെയും ഒളിക്കാൻ കഴിയില്ല അത് ഇങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരീക്ഷണത്തിലാണ് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെയും പിടിക്കപ്പെടാം നിങ്ങളെ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ അത് മനസ്സിൽ വയ്ക്കുക ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ അത് കേടുവരുത്തും കുട്ടിക്കാലം മുതൽ വർഷങ്ങളോളം പ്രശസ്തി നേടിയ നിങ്ങളെ പ്രാദേശിക നായകന്മാരായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരു ചെറിയ കാര്യം മോശമായി ഇടുകയും തുടർന്ന് ആളുകൾ നിങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നു അവർ നിങ്ങളെ പഠിപ്പിച്ച നല്ല വ്യക്തിയല്ല നിങ്ങളെന്ന് മനസ്സിലാക്കുക അതിനാൽ ധാർമ്മികമായി ശരിയായിരിക്കുക നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോഴെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപസംഹാര ചിന്ത പോലെ നിങ്ങൾക്കായി ഒരു ഉദ്ധരണി വായിക്കാനും താഴെ കൊടുത്തിരിക്കുന്ന തമാശ നിങ്ങൾ കാണാനും ധാർമ്മികതയെക്കുറിച്ചുള്ള ഉദ്ധരണി പോട്ടർ സ്റ്റുവാർട്ടിൽ നിന്നുള്ളതാണ് അത് പറയുന്നത് ധാർമ്മികത നിങ്ങൾക്ക് ചെയ്യാൻ അവകാശമുള്ള കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിയുക നിങ്ങൾക്ക് അവകാശമുള്ളത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങളുടെ ഡാറ്റ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങളുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഇമെയിൽ അയയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നാൽ ചില തരത്തിലുള്ള സന്ദേശങ്ങൾ അയയ്ക്കാതിരിക്കുക എന്നതാണ് ശരിയായ കാര്യം പെരുമാറാതിരിക്കാനോ മോശമായി പെരുമാറാതിരിക്കാനോ അർഹതയില്ലാത്ത ഒരാൾക്ക് ഇമെയിൽ സന്ദേശം അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ അയയ്ക്കുക എനിക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യുക എന്നത് എന്റെ അവകാശമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇന്റർനെറ്റിൽ എന്നാൽ എന്താണ് ശരിയായതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് ശരിയായി ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ശരിയെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളല്ല അതിനാൽ വ്യത്യാസം മനസ്സിലാക്കുക പിന്നെ വ്യത്യാസം അറിയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ ധാർമ്മികമായി ശരിയാക്കും നിങ്ങൾ ചിത്രം നോക്കുകയാണെങ്കിൽ ഇടത് വശത്ത് അയയ്ക്കുന്ന ഒരു വ്യക്തിയുണ്ട് മറ്റേ വ്യക്തിയോട് എല്ലാത്തരം അധിക്ഷേപകരമായ ഉള്ളടക്കവും ഇത് യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന വശത്തുള്ള വ്യക്തിയെ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു അവളുടെ വികാരങ്ങൾ നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ ഇത് സംഭവിക്കരുത് ഈ പ്രഭാഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു നല്ല നെറ്റിക്വറ്റ് ഉപയോക്താവെന്ന നിലയിൽ ഒരു നല്ല വ്യക്തിയെന്ന നിലയിൽ നിങ്ങളുടെ ഇമേജ് സ്റ്റാറ്റസ് കെട്ടിപ്പടുക്കുന്നു നെറ്റിക്വറ്റ് മാനദണ്ഡങ്ങൾ അറിയാം അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് വളരെ നിർദ്ദിഷ്ടമായ ഇമെയിൽ നോക്കാം നെറ്റ് വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങളെ വീണ്ടും ആദരിക്കുന്ന മര്യാദകൾ ഫലപ്രദമായി ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കും നന്ദിയും പറഞ്ഞു